ഹലോസുരക്ഷിത സിസ്റ്റം എഞ്ചിനീയറിംഗിനായുള്ള കോഴ്സിലെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്റ്റാക്കിലെ ഒരു ഓവർഫ്ലോയിലേക്ക് നോക്കിയിരുന്നു കൂടാതെ ആ ദുർബലത അല്ലെങ്കിൽ ബഫർ ഓവർഫ്ലോ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ കണ്ടു എക്സിക്യൂഷൻ അട്ടിമറിക്കാൻ ഇത് ഉപയോഗിക്കാം കൂടാതെ ആക്രമണകാരിക്ക് ഒരു പേലോഡും ഓവർറൈറ്റ് ചെയ്യാനും പേലോഡും എക്സിക്യൂട്ട് ചെയ്യാനും കഴിയും അതിനാൽ പ്രധാനമായും ആക്രമണകാരി ചെയ്യേണ്ടത് ബഫറിനെ കവിഞ്ഞൊഴുകുന്നതിലൂടെ സ്റ്റാക്കിലുള്ള റിട്ടേൺ വിലാസം ഓവർറൈറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ റിട്ടേൺ അഡ്രസ് സ്റ്റാക്കിലെ മറ്റൊരു ലൊക്കേഷൻ ഉപയോഗിച്ച് തിരുത്തിയെഴുതുന്നു ആ സ്ഥലത്ത് ആക്രമണകാരി ഒരു പേലോഡ് എഴുതിയിട്ടുണ്ട് തുടർന്ന് ഈ പേലോഡ് എക്സിക്യൂട്ട് ചെയ്യും ഈ പ്രഭാഷണത്തിൽ നമ്മൾ രണ്ട് പ്രിവൻഷൻ ടെക്നിക്കുകൾ പരിശോധിക്കും ഒന്നിനെ കാനറികൾ എന്നും മറ്റൊന്ന് NX ബിറ്റ് അല്ലെങ്കിൽ നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റാക്ക് എന്നും വിളിക്കുന്നു ഈ രണ്ട് വ്യത്യസ്ത സാങ്കേതിക വിദ്യകളും വളരെ ജനപ്രിയമാണ് അവ ഇന്ന് ഉപയോഗത്തിലുള്ള എല്ലാ കംപൈലറുകളിലും സിസ്റ്റങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നമുക്ക് ഈ പ്രഭാഷണം ആരംഭിക്കാം കാനറി ഒരു കംപൈലർ പ്രതിരോധ സംവിധാനമാണ് അടിസ്ഥാന പരമായി കംപൈലർ ചെയ്യുന്നത് ഒരു സ്റ്റാക്ക് ഫ്രെയിം സൃഷ്ടിക്കുമ്പോഴെല്ലാം കംപൈലറിന് സ്റ്റാക്കിൽ ഒരു കാനറി ഉൾപ്പെടുത്താൻ കഴിയും അതിനാൽ ഈ പ്രത്യേക ചിത്രത്തിൽ നമ്മൾ പ്രോഗ്രാമിന്റെ stack കാണിക്കുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ മുമ്പ് കണ്ടതുപോലെ സ്റ്റാക്കിൽ ഫംഗ്ഷൻ പാരാമീറ്ററുകൾ ഉണ്ടായിരിക്കും അതിൽ റിട്ടേൺ വിലാസം അടങ്ങിയിരിക്കും അതിനുശേഷം അതിന് ഒരു ഫ്രെയിം പോയിന്ററും തുടർന്ന് പ്രാവർത്തികമാക്കിയ ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിളുകളും ഉണ്ടാകും കംപൈലർ ചെയ്യേണ്ടത് ഇവിടെ ഒരു കാനറി ഇൻസർട്ട് ചെയ്യുക എന്നതാണ് എന്താണ് കാനറി ഇപ്പോൾ ഒരു കാനറി അടിസ്ഥാന പരമായി ഒരു റാൻഡം നമ്പറാണ് അത് ഒരു പ്രത്യേക റാൻഡം സ്റ്റോറിൽ നിന്ന് കംപൈലർ ഫിക്സ് ചെയ്തു ഇവിടെ ചേർക്കുന്നു എപ്പോഴെങ്കിലും ഈ രണ്ട് ബഫറുകളിൽ ഏതെങ്കിലും ബഫർ 1 അല്ലെങ്കിൽ ബഫർ 2 ഓവർഫ്ലോ ചെയ്യുകയും അതിന്റെ മൂല്യം കാനറിയുടെ മൂല്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ കാനറിയുടെ മൂല്യം മോഡിഫൈ ചെയ്യപ്പെടും ഇപ്പോൾ ഫംഗ്ഷന്റെ അവസാനം കംപൈലർ കാനറിയുടെ മൂല്യത്തിൽ ഒരു മാറ്റമുണ്ടെന്ന് കണ്ടെത്തും അപ്പോള് അത് സ്റ്റാക്ക് പരിഷ്ക്കരിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ഒരു Error കംപൈലർ throw ചെയ്യും അതിനാൽ സ്റ്റാക്ക് ഫ്രെയിം സൃഷ്ടിക്കുന്ന ഈ ചെറിയ ഫംഗ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാക്ക് ഫ്രെയിം പോയിന്റർ EBP എന്നിവ ഇതിനോട് Corresponding ആയിട്ടുള്ള സ്റ്റാക്കിലേക്ക് തള്ളിവിടുന്നു തുടർന്ന് സ്റ്റാക്ക് ഫ്രെയിമിന്റെ ഒരു മാറ്റമുണ്ടാകും നിലവിലെ സ്റ്റാക്ക് പോയിന്റർ ബേസ് പോയിന്ററിലേക്ക് നീക്കുകയും ലോക്കൽ വേരിയബിളുകൾക്ക് ഇടം നൽകുന്നതിന് സ്റ്റാക്ക് പോയിന്റർ 16 ബൈറ്റുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത് കാനറികളില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കാനറികളെ പിന്തുണയ്ക്കുന്ന കംപൈലറൂകളിൽ ചേർക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉള്ള ഈ പ്രത്യേക ഘട്ടത്തിൽ കൂടുതൽ ആഡ് ചെയ്യാനും ഇൻസർട്ട് ചെയ്യാനും ഉള്ള നിർദ്ദേശങ്ങൾ ഉണ്ട് മിക്ക കംപൈലറുകളും കാനറികളെ പിന്തുണയ്ക്കുന്നു ഈ കോഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കംപൈലറുകളും GCC കാനറികൾക്ക് പിന്തുണയുണ്ട് അതിനാൽ ചില കംപൈലറുകളിൽ കാനറികൾ സാഭാവികമായി പ്രാപ്തമാക്കുമ്പോൾ മറ്റ് കംപൈലറൂകളിൽ നിങ്ങൾക്ക് ഒരു വ്യക്തമായ കംപൈലേഷൻ ഫ്ലാഗ് നൽകേണ്ടിവരും അത് ഫംഗ്ഷനുകളിൽ കാനറികൾ ഉൾപ്പെടുത്താൻ പ്രാപ്തമാക്കും ചില കംപൈലറുകളും കാനറികൾ ചേർക്കാൻ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഒരു കംപൈലർ ഒരു ഫംഗ്ഷനിൽ ഒരു ബഫർ ഓവർഫ്ലോയ്ക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ കാനറികൾ ചേർക്കൂ സാഭാവികമായി കാനറികളെ പിന്തുണയ്ക്കാത്ത GCCയുടെ പതിപ്പുകളിൽ കാനറികൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് നിങ്ങൾക്ക് Compilation ഓപ്ഷൻ ആയ f stack protector എന്ന കമാൻഡ് ചേർക്കാം അതിനാൽ ഈ ഫ്ലാഗ് ചേർക്കുന്നത് ഫംഗ്ഷനുകളിലേക്ക് കാനറികൾ ചേർക്കുന്നതിനുള്ള കംപൈലറിനുള്ള സൂചനയാണ് അതിനാൽ ഒരു ചെറിയ ഉദാഹരണം ഉപയോഗിച്ച് കാനറികൾ യഥാർത്ഥത്തിൽ ആന്തരികമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമ്മൾ ഈ പ്രത്യേക ഉദാഹരണം എടുക്കും അവിടെ രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ട് ഒന്ന് main ഫംഗ്ഷൻ തുടർന്ന് സ്കാൻ എന്ന് വിളിക്കുന്ന മറ്റൊരു ഫംഗ്ഷൻ main ഫംഗ്ഷൻ സ്കാൻ അഭ്യർത്ഥിച്ച് റിട്ടേൺ ചെയ്യുന്നതാണ് ഇപ്പോൾ സ്കാൻ ഫംഗ്ഷനിൽ നമ്മൾ 22 ബൈറ്റുകളുടെ ഒരു ലോക്കൽ ബഫർ ഡിക്ലയർ ചെയ്യുന്നു ഇത് ഒരു ലോക്കൽ വേരിയബിൾ ആയതിനാൽ ഈ അറേ സ്റ്റാക്കിൽ അനുവദിച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ ഉപയോക്താവിൽ നിന്ന് ഒരു സ്ട്രിംഗ് വായിക്കുന്ന ഈ സ്കാൻഫ് ഫംഗ്ഷൻ call ചെയ്യുന്നു ഈ സ്കാൻഫ് ഫംഗ്ഷൻ ഒരു ബഫർ ഓവർഫ്ലോയ്ക്കുള്ള സാധ്യതയാണെന്നത് ശ്രദ്ധിക്കുക കാരണം ഉപയോക്താവിന് 22 ബൈറ്റുകളേക്കാൾ വലിയ ഒരു വലിയ സ്ട്രിംഗ് നൽകാം അതിനാൽ ബഫർ 2 overflow ചെയ്യും അതിനാൽ main ഫംഗ്ഷൻ സ്കാൻ ഫംഗ്ഷൻ ഇൻവോക് ചെയ്യുമ്പോൾ സ്റ്റാക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം അതിനാൽ mian ഇൽ ഉള്ള സ്കാൻ നിർദ്ദേശത്തിനുശേഷം ഉടൻ തന്നെ വിലാസവുമായി പൊരുത്തപ്പെടുന്ന റിട്ടേൺ അഡ്രസ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത മുമ്പത്തെ ഫ്രെയിം പോയിന്റർ scan ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫ്രെയിം മാറ്റാൻ പ്രാപ്തമാക്കും കംപൈലർ ഒരു കാനറി ഇൻസർട്ട് ചെയ്യുകയും ബഫർ 2 ഇൽ 22 ബൈറ്റുകളുടെ ഇടമുണ്ടാകുകയും ചെയ്യും 22 ബൈറ്റുകളേക്കാൾ വലിയ ഇൻപുട്ട് നൽകി ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് ഇപ്പോൾ നോക്കാം ഉദാഹരണത്തിന് gcc canaries 2 c O0 പോലുള്ള പ്രത്യേക പ്രോഗ്രാം നമ്മൾ കംപൈൽ ചെയ്യുന്നു ഇപ്പോൾ GCCയുടെ ഈ പ്രത്യേക പതിപ്പിൽ കാനറികൾ സാഭാവികമായി ചേർത്തിരിക്കുന്നു എന്നിരുന്നാലും എല്ലാ GCC വെർഷനുകളിലും ഇത് അങ്ങനെയായിരിക്കില്ല അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ f stack protector കംപൈലേഷൻ സമയത്ത് ഒരു ഓപ്ഷനായി ഇടണം ഇപ്പോൾ നിങ്ങൾ സ്കാൻ എന്ന് വിളിക്കുന്ന ഈ പ്രത്യേക പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ scanf എന്ന ഫംഗ്ഷൻ വിളിക്കുന്നു ഇത് ഒരു സ്ട്രിംഗ് input നൽകാൻ അത് ഉപയോക്താവിനോട് ആവശ്യപ്പെടും നമ്മൾ ഇവിടെ ചെയ്തത് 22 ബൈറ്റുകളേക്കാൾ വളരെ വലിയ ഒരു സ്ട്രിംഗ് എൻറർ ചെയ്തു എന്നതാണ് scanf എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം അത് ഈ string ബഫർ 2ൽ ഫില്ല് ചെയ്യും ഇപ്പോൾ ഹെക്സാഡെസിമൽ നൊട്ടേഷനിലെ 2 ന്റെ ASCII മൂല്യം 32 ആണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 32 ന്റെ ഈ മൂല്യം സ്റ്റാക്കിൽ നിറഞ്ഞിരിക്കുന്നു എന്നതാണ് ബഫർ 2 ന്റെ 22 ബൈറ്റുകളുടെ പരിധി കവിയുന്നതിനാൽ ഒരു ബഫർ ഓവർഫ്ലോ ഉണ്ടാകും അതുകൊണ്ടു കാനറി മൂല്യം മാറുന്നതായി നമ്മൾ കാണുന്നു അവിടെ ഉണ്ടായിരുന്ന ഏത് കാനറിയും ഇപ്പോൾ 32 32 32 32 എന്നിവ ഉപയോഗിച്ച് പുനരാലേഖനം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ സ്റ്റാക്കിലെ മറ്റ് ഡാറ്റയും റിട്ടേൺ വിലാസവും ഫ്രെയിം പോയിന്ററും 32 കൾ ഉപയോഗിച്ച് തിരുത്തിയെഴുതപ്പെടുന്നു ഇപ്പോൾ സ്കാൻ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ കാനറിയുടെ മൂല്യം മാറിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്ന കോഡ് കംപൈലർ ആഡ് ചെയ്യുന്നു തൽഫലമായി നമുക്ക് ഇതുപോലുള്ള ഒരു ഔട്ട്പുട്ട് ലഭിക്കും ഒരു സ്റ്റാക്ക് സ്മാഷിംഗ് കണ്ടെത്തി പ്രോഗ്രാം അവസാനിപ്പിച്ചതായി നിങ്ങൾ കാണുന്നു അതിനാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പ്രത്യേക സ്ഥലത്ത് 0x804847A ൽ പ്രോഗ്രാം അവസാനിച്ചു വെന്നും പരിഷ്ക്കരിച്ച കാനറിയുടെ മൂല്യം 32 32 32 32 ആണെന്നും ഇത് കാണിക്കുന്നു ബഫർ ഓവർഫ്ലോ കാരണം ഇത് തീർച്ചയായും സ്റ്റാക്കിൽ ഉണ്ടായിരുന്നു അതിനാൽ ആ പ്രത്യേക പ്രോഗ്രാം അവസാനിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന മെമ്മറി മാപ്പ് സ്റ്റാക്ക് സ്മാഷിംഗ് മൂലം കണ്ടെത്തും കാനറികളുമായി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് അൽപ്പം ആഴത്തിൽ മനസ്സിലാക്കാം അതിനാൽ സ്ലൈഡിന്റെ ഈ ഭാഗത്ത് കാനറികൾ പ്രവർത്തനക്ഷമമാക്കാതെ സ്കാൻ ചെയ്യുന്നതിനുള്ള അസംബ്ലി കോഡ് കാണിക്കുന്നു ഇടതുവശത്ത് ആയി കാനറികൾ പ്രവർത്തനക്ഷമമാക്കിയ അനുബന്ധ അസംബ്ലി കോഡ് കാണിക്കുന്നു അതിനാൽ കാനറികളില്ലാതെ നിർദ്ദേശങ്ങളുടെ എണ്ണം വളരെ കുറവാണെന്ന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നു പതിവുപോലെ ഒരു സ്റ്റാക്ക് ഫ്രെയിം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും തുടർന്ന് scanf നായി സജ്ജമാക്കേണ്ട ചില പാരാമീറ്ററുകൾ ഉണ്ടെന്നും തുടർന്ന് scanf ലേക്ക് ഒരു ക്ഷണം ഉണ്ടെന്നും ശ്രദ്ധിക്കുക Iso c99 scanf എന്ന് വിളിക്കുന്ന ഈ പ്രത്യേക നിർദ്ദേശം ലൈബ്രറിയിൽ നിന്ന് സ്കാൻഫ് ഫംഗ്ഷൻ invoke ചെയ്യുന്നു തുടർന്ന് ഫംഗ്ഷനിൽ നിന്ന് ഒരു റിട്ടേൺ ഉണ്ടാകും ഇപ്പോൾ കാനറികൾ enable ആകുമ്പോൾ കുറച്ച് അധിക നിർദ്ദേശങ്ങൾ ചേർക്കുന്നു ഇപ്പോൾ കൃത്യമായി നമുക്ക് ഫംഗ്ഷന്റെ തുടക്കത്തിൽ മൂന്ന് നിർദ്ദേശങ്ങളും ഫംഗ്ഷന്റെ അവസാനം ചേർക്കുന്ന രണ്ട് നിർദ്ദേശങ്ങളും ഉണ്ട് ഇപ്പോൾ മൂന്ന് നിർദ്ദേശങ്ങളുടെ ഈ സെറ്റ് ഒരു റാൻഡം കാനറി സ്റ്റാക്കിലേക്ക് ലോഡുചെയ്യുന്നു അതിനാൽ കാനറിയിൽ ഉണ്ടാകാൻ പോകുന്ന റാൻഡം മൂല്യം gs20 എന്ന പ്രത്യേക സ്ഥാനത്ത് നിന്ന് ലഭിക്കും അത് GS ചൂണ്ടിക്കാണിച്ച സെഗ്മെന്റിലും ഒരു ഓഫ്സെറ്റ് 20 ലും നിലവിലുള്ള റാൻഡം ഡാറ്റ ആണ് അതിനാൽ നമ്മൾ അവിടെ നിന്ന് ചില റാൻഡം ഡാറ്റ എടുത്ത് അത് EAX രജിസ്റ്ററിലേക്ക് നീക്കുകയും തുടർന്ന് EAX രജിസ്റ്ററിലെ ഉള്ളടക്കങ്ങൾ സ്റ്റാക്കിലേക്ക് സംഭരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ EBP എന്ന സ്ഥാനത്ത് അതായത്കാനറി ലൊക്കേഷനിൽ 12 ബൈറ്റുകൾ ഉള്ള ഒരു ഫ്രെയിം പോയിന്റർ ഉണ്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ കാനറിയുടെ റാൻഡം വാല്യൂ ആയ EAX ന്റെ ഉള്ളടക്കങ്ങൾ സംഭരിക്കുന്നു അപ്പോൾ EAX രജിസ്റ്ററിനെ പ്രധാനമായും പൂജ്യമാക്കുന്ന ഒരു EX OR നിർദ്ദേശമുണ്ട് ഫംഗ്ഷനിൽ നിന്ന് മടങ്ങുന്നതിന് തൊട്ടു മുമ്പും അവസാനവും ഇവിടെ ഉണ്ടായിരുന്നതുപോലെ ബാക്കി മൂന്ന് നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഉണ്ട് കാനറി മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നതിന് ഒരു പരിശോധനയുണ്ട് ഇപ്പോൾ ചെക്ക് അടിസ്ഥാന പരമായി EBP 12 എന്ന സ്ഥാനത്തുള്ള സ്റ്റാക്കിൽ നിന്ന് കാനറി മൂല്യം EDX രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും തുടർന്ന് കാനറിയുടെ ഉള്ളടക്കത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും അതിനാൽ gs 20 ൽ ഉള്ള യഥാർത്ഥ ഡാറ്റയുടെ EX OR EDX രജിസ്റ്ററിലേതിന് സമാനമാണോയെന്ന് പരിശോധിച്ചാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഇത് സമാനമാണെങ്കിൽ ഒരു മാറ്റവുമില്ലെന്ന് അർത്ഥമാക്കും കാനറിയിൽ ഫംഗ്ഷൻ വിജയകരമായി റിട്ടേൺ ചെയ്യുന്നു മറുവശത്ത് കാനറി യഥാർത്ഥത്തിൽ മാറിയെന്ന് നമ്മൾ കണ്ടെത്തിയാൽ അതിനർത്ഥം EX OR മൂല്യം പൂജ്യമല്ലാത്ത എന്തെങ്കിലും തിരികെ നൽകുമെന്നും തുടർന്ന് stack chk fail എന്ന ഈ പ്രത്യേക ഫംഗ്ഷനിലേക്ക് ഒരു കോൾ ഉണ്ടെന്നും അർത്ഥമാക്കുന്നു ഇപ്പോൾ stack chk fail ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് അത് അടിസ്ഥാനപരമായി ഈ പ്രത്യേക output പ്രിന്റ് ചെയ്യും ഇത് സ്റ്റാക്ക് സ്മാഷിംഗ് എവിടെയാണ് കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നിങ്ങളോട് പറയും പ്രോസസ്സർ നിർമിക്കുമ്പോൾ ഹാർഡ്വെയറിൽ നടപ്പിലാക്കുന്ന മറ്റൊരു പ്രതിരോധസംവിധാനമാണ് നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റാക്ക് അല്ലെങ്കിൽ WX ബിറ്റ് ഇത് അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക സെഗ്മെന്റിനായി ഉദാഹരണത്തിന് സ്റ്റാക്ക് സെഗ്മെന്റിന് ആ പ്രത്യേക സെഗ്മെന്റിലേക്ക് എഴുതാനോ ആ സെഗ്മെന്റിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാനോ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പ്രത്യേക സെഗ്മെന്റിലേക്ക് എഴുതാൻ കഴിയുമെങ്കിൽ അതിനർത്ഥം ആ സെഗ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് മറുവശത്ത് നിങ്ങൾക്ക് ഒരു സെഗ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രത്യേക സെഗ്മെന്റിലേക്ക് എഴുതാൻ കഴിയില്ല ഇത് എങ്ങിനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ബഫർ ഓവർഫ്ലോയും ആക്രമണകാരി തന്റെ പേലോഡ് സ്റ്റാക്കിൽ എഴുതിയതും ആ പ്രത്യേക പേലോഡ് എക്സിക്യൂട്ട് ചെയ്തതും എങ്ങനെയെന്ന് ഓർക്കുക ആക്രമണകാരിക്ക് സ്റ്റാക്കിൽ എഴുതി കോഡ് ഇഞ്ചക്ട് ചെയ്യാനും തുടർന്ന് എക്സിക്യൂട്ട് ചെയ്യാനും കഴിഞ്ഞു ഇപ്പോൾ ഈ നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റാക്ക് ഉപയോഗിച്ച് ഈ രണ്ട് കാര്യത്തിൽ ഒന്ന് സാധ്യമല്ല അതിനാൽ നിങ്ങൾ സ്റ്റാക്കിലേക്ക് എഴുതുകയാണെങ്കിൽ ആ സ്റ്റാക്കിൽ നിന്ന് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ ഇന്റൽ AMD പ്രോസസ്സറുകൾ ഈ എക്സിക്യൂട്ടബിൾ സ്റ്റാക്കുകളെ പിന്തുണയ്ക്കുന്നു ഇന്റൽ പ്രോസസ്സറുകളിൽ ഇതിനെ NX ബിറ്റ് എന്നും AMD പ്രോസസ്സറുകളിൽ ഇതിനെ ND ബിറ്റ് എന്നും വിളിക്കുന്നു അതിനാൽ കോഡ് ഇതര പ്രദേശങ്ങൾ എക്സിക്യൂട്ടബിൾ അല്ലെന്ന് അടയാളപ്പെടുത്തുന്നതിന് NX ബിറ്റ് അല്ലെങ്കിൽ ND ബിറ്റ് ഉപയോഗിക്കുന്നു പ്രോഗ്രാമിന്റെ സ്റ്റാക്കിന് NX ബിറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നതിൽനിന്നും നിങ്ങൾക്ക് സ്റ്റാക്കിലേക്ക് എഴുതാമെന്നും എന്നാൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ലെന്നും അർത്ഥമാക്കുന്നു ഇപ്പോൾ ആകസ്മികമായി പേലോഡ് ആ പ്രത്യേക സ്റ്റാക്കിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയട്ടെ ഒരു exception ഉണ്ടായി കോഡ് അവസാനിക്കും അതിനാൽ OS കാഴ്ചപ്പാടിൽ നിന്നുള്ള NX ബിറ്റ് പിന്തുണ 2004 മുതൽ ലിനക്സ് കേർണലുകളിൽ നിന്നും Windows XP സർവീസ് പായ്ക്ക് 1 Windows Server 2003 എന്നിവയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിനെ ഡാറ്റാ എക്സിക്യൂഷൻ പ്രിവൻഷൻ എന്ന് വിളിക്കുന്നു ഇത് ആക്രമണം തടയുന്നതിനുള്ള വളരെ കാര്യക്ഷമമായ മാർഗമാണ് കാരണം ഒരു പേജിന് 1 ബിറ്റ് മാത്രമാണ് ആവശ്യമുള്ളത് ഈ ബിറ്റ് ആ പ്രത്യേക പ്രോസസ്സനായി പേജ് ഡയറക്ടറിയിലും പേജ് പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെറും യഥാർത്ഥത്തിൽ ആക്രമണം തടയാൻ പര്യാപ്തമായ ഒരൊറ്റ ബിറ്റ് ആണ് എന്നിരുന്നാലും ദോഷകരമല്ലാത്ത നിരവധി പ്രോഗ്രാമുകൾ ഉണ്ട് അവ യഥാർത്ഥത്തിൽ സ്റ്റാക്കിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് JAVA Just In Time compiler ചില ബാഹ്യ ഡാറ്റയെ അടിസ്ഥാനമാക്കി അസംബ്ലി കോഡ് നിർമ്മിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും അത്തരം ആപ്ലിക്കേഷനുകളിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാക്കിൽ നിർമ്മിക്കുന്നു NX ബിറ്റ് സെറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഈ അപ്ലിക്കേഷൻ പൂർത്തിയാകില്ല അതിനാൽ NX ബിറ്റ് enable ചെയ്ത ഒരു പ്രോസസ്സറിൽ ഈ പ്രത്യേക ആപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ റൺ ചെയ്യുന്നതിന് ഈ പ്രത്യേക ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഈ NX ബിറ്റ് disbale ചെയ്യേണ്ടതുണ്ട് ഇത്ബഫർ ഓവർഫ്ലോ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള വളരെ കാര്യക്ഷമമായ മാർഗ്ഗം ആയിരുന്നാലും ചില ആപ്ലിക്കേഷനുകൾ പൂർത്തിയാകാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന ഒരു പോരായ്മയുമുണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങൾ കാനറികളും NX ബിറ്റും മിക്ക ആധുനിക സംവിധാനങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ ഉദാഹരണത്തിൽ ഈ പ്രത്യേക കോഡ് പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ Ubuntu സിസ്റ്റങ്ങൾ സ്റ്റാക്ക് സ്മാഷിംഗ് കണ്ടെത്തുകയും ഈ പ്രത്യേക കോഡ് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും എന്നിരുന്നാലും ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് ഈ പ്രത്യേക പ്രതിരോധത്തെ നമ്മൾ disable ചെയ്യണം അതിനുള്ള മാർഗ്ഗം ഈ പ്രത്യേക പ്രോഗ്രാം സ്റ്റാക്ക് പരിരക്ഷയും NX ബിറ്റും disable ചെയ്യുന്നതിന് ചില ഓപ്ഷനുകളുമായി കംപൈൽ ചെയ്യുക എന്നതാണ് കാനറികളെയും z execstackനെയും disable ചെയ്യുന്ന " fno stack protector" എന്ന ഓപ്ഷൻ compile ചെയ്യുമ്പോൾ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം അത് സ്റ്റാക്കിൽ നിന്ന് എക്സിക്യൂഷൻ അനുവദിക്കും ഇത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ടബിൾ a out ലഭിക്കും കൂടാതെ ഈ a out നിങ്ങളുടെ മെഷീനിൽ വിജയകരമായി റൺ ആകും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രത്യേക ഡയറക്ടറിയിൽ ഈ കോഡ് റഫർ ചെയ്യാനും ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് കംപൈൽ ചെയ്യാനും ഈ പ്രത്യേക പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണാനും പേലോഡ് പ്രവർത്തിപ്പിക്കാനും ഷെൽ വിജയകരമായി സൃഷ്ടിക്കാനും കഴിയും ഈ പ്രഭാഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് main ഉം scanf ഉം ഉള്ള ഈ പ്രത്യേക ഉദാഹരണം പരിഗണിക്കുമ്പോൾ സ്കാൻഫ് ഉപയോഗിക്കുമ്പോൾ എല്ലാം 2 ഉള്ള വളരെ വലിയ ഇൻപുട്ട് നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ കാണുന്നു ഈ പ്രത്യേക പ്രോഗ്രാമിനായി കാനറികൾ പ്രാപ്തമാക്കാത്തപ്പോൾ എക്സിക്യൂഷന് എന്ത് സംഭവിക്കും ഈ നിർദ്ദിഷ്ട പ്രോഗ്രാമിലാണ് നിങ്ങൾ കാനറികൾ പ്രവർത്തനക്ഷമമാക്കാതെ ഇത് കംപൈൽ ചെയ്തത് എന്ന് കരുതുക ഉദാഹരണത്തിന് Compilation സമയത്ത് fno stack protector canaries ഓപ്ഷൻ ഉപയോഗിക്കുന്നു ഈ പ്രത്യേക പ്രോഗ്രാമിന്റെ ഫലം എന്തായിരിക്കും അതിനാൽ അടുത്ത പ്രഭാഷണം വരെ ഇത് ചിന്തിക്കേണ്ട കാര്യമാണ് നന്ദി